നമസ്കാരം അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളെക്കുറിച്ചുള്ള കോഴ്സിന്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ അടിസ്ഥാനപരമായി ഫസ്റ്റ് ഓർഡറിനെയും രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ടുകളെയും കുറിച്ച് സംസാരിക്കും പ്രത്യേകിച്ചും ഇന്ന് ആദ്യത്തെ ഓർഡർ ആർസി സർക്യൂട്ടുകളെക്കുറിച്ച് സംസാരിക്കും അതിനാൽ ഫസ്റ്റ് ഓർഡർ ആർസി സർക്യൂട്ടുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം പ്രത്യേകിച്ചും ആർസി സർക്യൂട്ടിലേക്ക് പോകുന്നതിനുമുമ്പ് ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടിന്റെ അർത്ഥമെന്താണെന്ന് മനസിലാക്കാം റെസിസ്റ്ററും കപ്പാസിറ്ററും അടങ്ങുന്ന രണ്ട് തരം ലളിതമായ സർക്യൂട്ടുകളെക്കുറിച്ചും റെസിസ്റ്ററും ഇൻഡക്ടറും അടങ്ങുന്ന ഒരു സർക്യൂട്ടിനെക്കുറിച്ചും ചർച്ച ചെയ്യും അതിനാൽ ഇവയെ സാധാരണയായി ആർസി ആർഎൽ സർക്യൂട്ടുകൾ എന്ന് വിളിക്കുന്നു റെസിസ്റ്റീവ് സർക്യൂട്ടുകൾക്കായി ചെയ്തതുപോലെ കിർചോഫ്സ് നിയമം പ്രയോഗിച്ചാണ് ആർസി ആർഎൽ സർക്യൂട്ടുകളുടെ വിശകലനം ചെയ്യുന്നത് ഇപ്പോൾ കിർചോഫിന്റെ നിയമം പൂർണ്ണമായും റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പ്രയോഗിക്കുന്നത് ലളിതമാണ് കാരണം ഇത് പരിഹരിക്കാൻ എളുപ്പമുള്ള ഒരു ബീജഗണിത സമവാക്യം അഥവാ ആൾജിബ്രയ്ക് സമവാക്യം നൽകുന്നു ഇപ്പോൾ ആർസി ആർഎൽ സർക്യൂട്ടുകൾക്കായി അതേ നിയമം പ്രയോഗിക്കുമ്പോൾ അത് ഒരു ഡിഫറൻഷ്യൽ സമവാക്യം ഉൽപാദിപ്പിക്കുന്നു കിർചോഫ്സ് നിയമം ഉപയോഗിച്ച് റെസിസ്റ്റീവ് സർക്യൂട്ടുകൾ പരിഹരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ബീജഗണിത സമവാക്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് പരിഹരിക്കാൻ അൽപം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ RC ആൻഡ് RL സർക്യൂട്ടുകൾ വിശകലന ഫലമായുണ്ടാകുന്ന ഡിഫറൻഷ്യൽ സമവാക്യം ഫസ്റ്റ് ഓർഡർ ആണ് അതിനാലാണ് ഈ തരം സർക്യൂട്ടുകളെ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് എന്ന് വിളിച്ചത് അതിനാൽ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സ്വഭാവമാണെന്ന് നമുക്ക് പറയാൻ കഴിയും അതിനാൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം വരുന്നിടത്ത് ഇത് ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് ആണെന്ന് നമുക്ക് പറയാം ഈ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടുകളെ എക്സൈറ്റ് ചെയ്യാൻ രണ്ട് വഴികളുണ്ട് സർക്യൂട്ടിലെ സംഭരണ ഘടകങ്ങളുടെ പ്രാരംഭ നിബന്ധനകൾ ഉപയോഗിച്ചാണ് ആദ്യ മാർഗം അതിനാൽ തുടക്കത്തിൽ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്റ്റർ ചാർജ് ചെയ്യുകയും ചാർജ്ജ് ചെയ്ത കപ്പാസിറ്ററും ഇൻഡക്ടറും സർക്യൂട്ടിലേക്ക് ചേർക്കുകയും ചെയ്താൽ സർക്യൂട്ടിന് ഒരു ഊർജ്ജ സ്രോതസ്സ് മാത്രമേ ഉണ്ടാകൂ അത് കപ്പാസിറ്ററിലോ ഇൻഡക്ടറിലോ സംഭരിച്ചിരിക്കുന്ന മൊത്തം ഊർജ്ജമാണ് അതിനാൽ ഊർജ്ജം നൽകാൻ ബാഹ്യ വോൾട്ടേജോ കറണ്ട്കളോ ഉണ്ടാകില്ല ഈ സർക്യൂട്ടുകളിൽ ബാഹ്യ ഉറവിടങ്ങളൊന്നും ലഭ്യമല്ലാത്തതിനാൽ ഈ സർക്യൂട്ടുകളെ സോഴ്സ് ഫ്രീ സർക്യൂട്ടുകൾ എന്ന് വിളിക്കുന്നു നമുക്ക് കപ്പാസിറ്ററും ഇൻഡക്റ്ററും ഉണ്ട് അതിനാൽ കുറച്ച് ഊർജ്ജം സംഭരിച്ചിരിക്കുന്നു ഊർജ്ജം തുടക്കത്തിൽ ആ ഘടകങ്ങളിൽ സംഭരിക്കപ്പെടുന്നുവെന്നും ഈ ഊർജ്ജം സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുമെന്നും കരുതുന്നു ക്രമേണ അത് റെസിസ്റ്ററുകളിൽ വ്യാപിക്കും കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ആർസി അല്ലെങ്കിൽ ആർഎൽ സർക്യൂട്ടിൽ നമുക്ക് സീരീസിലോ അല്ലെങ്കിൽ സമാന്തരമായോ ഒരു റെസിസ്റ്റർ ഉണ്ടാകും കപ്പാസിറ്ററിലോ ഇൻഡക്ടറിലോ മുമ്പ് സംഭരിച്ചിരുന്ന ഊർജ്ജത്തെ ക്രമേണ ഇല്ലാതാക്കാൻ റെസിസ്റ്റീവ് ഘടകം കാരണമാകും സോഴ്സ് ഫ്രീ സർക്യൂട്ടുകൾ ആണെങ്കിലും അതിനർത്ഥം ഇത് സ്വതന്ത്ര ഉറവിടങ്ങളിൽ നിന്ന് മുക്തമാണെന്നാണ് ചില ആശ്രിത ഉറവിടങ്ങൾ ഉണ്ടാകാം ഈ ക്ലാസ് പുരോഗമിക്കുമ്പോൾ അത്തരം കേസുകൾ കാണും ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടിനെ എക്സൈറ്റ് ചെയ്യുന്നതിനുള്ള രണ്ടാമത്തെ മാർഗം സ്വതന്ത്ര ഉറവിടങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് നിങ്ങൾക്ക് ഉറവിടങ്ങളില്ലാത്ത ആദ്യത്തെ കേസ് ഞങ്ങളുടെ പക്കലുണ്ട് അതിനെ സോഴ്സ് ഫ്രീ സർക്യൂട്ടുകൾ എന്ന് വിളിക്കുന്നു രണ്ടാമത്തേതിൽ നിങ്ങൾ ഒരു സ്വതന്ത്ര ഉറവിടം പ്രയോഗിച്ച് ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടിനെ എക്സൈറ്റ് ചെയ്യുന്നു സോഴ്സ് ഫ്രീ ആർസി സർക്യൂട്ട് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം മനസിലാക്കാൻ ശ്രമിക്കാം സോഴ്സ് ഫ്രീ ആർസി സർക്യൂട്ട് എന്നതിനർത്ഥം നമുക്ക് സർക്യൂട്ടിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന ബാഹ്യ വോൾട്ടേജോ വൈദ്യുതധാരകളോ ഇല്ല സോഴ്സ് ഫ്രീ ആർസി സർക്യൂട്ട് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനാകും ഒരു ഡിസി ഉറവിടം പെട്ടെന്ന് വിച്ഛേദിക്കപ്പെടുമ്പോൾ ഇത് സംഭവിക്കും നിങ്ങൾ സ്വിച്ചിലൂടെ ഒരു വോൾട്ടേജ് ഉറവിടം ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുക വോൾട്ടേജ് V ആയിരിക്കാം ആദ്യം ഈ സ്വിച്ച് കണക്റ്റുചെയ്തു കുറച്ച് സമയത്തിന് ശേഷം പെട്ടെന്ന് ഈ സ്വിച്ച് വിച്ഛേദിച്ചു അതിനാൽ കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടുകയും സർക്യൂട്ട് വിച്ഛേദിക്കുമ്പോൾ ഊർജ്ജം സംഭരിക്കുകയും ചെയ്യും ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഇപ്പോൾ നമുക്ക് റെസിസ്റ്ററിന്റെ സീരീസ് കോമ്പിനേഷൻ പരിഗണിക്കാം തുടക്കത്തിൽ ചാർജ്ജ് ചെയ്യപ്പെടുന്നത് അർത്ഥമാക്കുന്നത് കപ്പാസിറ്ററിൽ ഊർജ്ജം സംഭരിക്കപ്പെടുന്നു എന്നാണ് കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം സർക്യൂട്ടിലുള്ള റെസിസ്റ്ററിലൂടെ എങ്ങനെ പുറത്തുവിടും എന്ന് കാണും ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കൈവശമുള്ള റെസിസ്റ്ററും കപ്പാസിറ്ററും നമ്മൾ ഇവിടെ ഒറ്റയായി കാണുന്നു പക്ഷേ ഇത് റെസിസ്റ്ററുകളുടെയും കപ്പാസിറ്ററിന്റെയും സംയോജനത്തിന്റെ തുല്യമായ റസിസ്റ്റൻസ് അല്ലെങ്കിൽ തുല്യ കപ്പാസിറ്റൻസ് ആകാം അതിനാൽ സർക്യൂട്ടിൽ ഒന്നിലധികം കപ്പാസിറ്ററുകൾ ഒന്നിലധികം റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ അവയെല്ലാം സംയോജിപ്പിച്ചു തുല്യമായ ആർസി സർക്യൂട്ട് സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ സി ആർ എന്നിവ തുല്യ കപ്പാസിറ്റൻസും തുല്യമായ റെസിസ്റ്റൻസും ആയി കണക്കാക്കാം ഇപ്പോൾ സർക്യൂട്ട് റെസിസ്റ്റൻസ് കണ്ടെത്തണം സർക്യൂട്ട് റെസിസ്റ്റൻസ് എന്നതിനർത്ഥം ഈ കേസിൽ കപ്പാസിറ്ററായ ഘടകങ്ങളിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം പുറത്തുവിടുമ്പോൾ സർക്യൂട്ട് പ്രതികരിക്കുന്ന രീതി കപ്പാസിറ്റർ തുടക്കത്തിൽ ചാർജ് ചെയ്യുകയും സമാന്തരമായി റെസിസ്റ്ററുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ സർക്യൂട്ടിന്റെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഈ സാഹചര്യത്തിൽ കപ്പാസിറ്റർ തുടക്കത്തിൽ ചാർജ്ജ് ചെയ്യപ്പെടുന്നു ആ സമയത്ത് t പൂജ്യത്തിന് തുല്യമാണെന്ന് നമുക്ക് അനുമാനിക്കാം കപ്പാസിറ്ററിന് ചില പ്രാരംഭ വോൾട്ടേജ് ഉണ്ടായിരുന്നു ഈ പ്രാരംഭ വോൾട്ടേജ് കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജാണ് ആ സമയത്ത് t പൂജ്യത്തിന് തുല്യമാണ് അതിനാൽ കപ്പാസിറ്ററിൽ സൂക്ഷിക്കുന്ന ഊർജ്ജത്തിന്റെ മൂല്യം ആയിരിക്കും സർക്യൂട്ടിൽ നിന്ന് ഒരു ലൂപ്പ് ഉണ്ടാകും കൂടാതെ ഈ പ്രത്യേക നോഡിൽ കിർചോഫിന്റെ കറണ്ട് നിയമം Kirchhoff's current law പ്രയോഗിക്കുകയാണെങ്കിൽ ലഭിക്കും കപ്പാസിറ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ് റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് അതിനാൽ ഏത് സമയത്തും t റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് പറയാൻ കഴിയും കാരണം ഇവ രണ്ടും സമാന്തരമാണ് അതിനാൽ വോൾട്ടേജ് രണ്ട് മൂലകങ്ങളിലും തുല്യമായി തുടരും വോൾട്ടേജിന്റെ മൂല്യം v ഇപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യമാണ് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം പറയുന്നത് കാരണം വോൾട്ടേജ് V യുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ ഇപ്പോൾ പദം പുനക്രമീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കും നമ്മൾ ഇരുവശവും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ സ്ഥിരമായ പദം ln A ആണെന്ന് നമ്മൾ അനുമാനിക്കും ഇവിടെ A എന്നത് ഇന്റഗ്രേറ്റ് സ്ഥിരാങ്കമാണ് അതിനാൽ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഇരുവശത്തും e യുടെ പവർ എടുക്കമ്പോൾ നമുക്ക് ലഭിക്കും പ്രാരംഭ വ്യവസ്ഥ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ അനുമാനിക്കുന്നു അതുകൊണ്ടു കപ്പാസിറ്ററോ റെസിസ്റ്ററോ ആകട്ടെ രണ്ട് ഘടകങ്ങളിലുമുള്ള വോൾട്ടേജ് സമയ വ്യത്യാസമുള്ള ഘടകമാണെന്ന് കാണാൻ കഴിയും അതിനാൽ ആർസി സർക്യൂട്ടിന്റെ വോൾട്ടേജ് പ്രതികരണം പ്രാരംഭ വോൾട്ടേജിന്റെ എക്സ്പോണൻഷ്യൽ ക്ഷയമാണെന്ന് ഇത് കാണിക്കുന്നു ഇപ്പോൾ പ്രതികരണത്തിന് കാരണം സംഭരിച്ച പ്രാരംഭ ഊർജ്ജവും സർക്യൂട്ടിന്റെ ഭൌതിക സ്വഭാവവുമാണ് അതിനാൽ ഇത് മറ്റേതെങ്കിലും ബാഹ്യ വോൾട്ടേജോ വൈദ്യുത പ്രവാഹമോ മൂലമാകില്ല ഇതിനെ സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണം എന്ന് വിളിക്കുന്നു അതിനാൽ സർക്യൂട്ടിലേക്ക് ഒരു ബാഹ്യ സ്രോതസ്സും ബന്ധിപ്പിച്ചിട്ടില്ലെന്നും ബാഹ്യ ഊർജ്ജം ഇല്ലാതാകുമെന്നും പറയുമ്പോൾ സർക്യൂട്ടിന്റെ പ്രതികരണത്തെ സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണം എന്ന് വിളിക്കുന്നു അതിനാൽ സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണം ബാഹ്യ ഗവേഷണ സ്രോതസ്സുകളില്ലാത്ത സർക്യൂട്ടിന്റെ വോൾട്ടേജും വൈദ്യുതധാരയും കണക്കിലെടുക്കുന്ന സ്വഭാവത്തെ സൂചിപ്പിക്കുന്നുവെന്ന് നമുക്ക് ലളിതമായി പറയാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ ഗ്രാഫിക്കായി പ്രതിനിധീകരിക്കും സ്വാഭാവിക പ്രതികരണത്തെ ഗ്രാഫിക്കായി പ്രതിനിധീകരിക്കുമ്പോൾ അത് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് എന്ന ഘടകം ഇവിടെ കാണും ടൈം കോൺസ്റ്റന്റ് τ ടൌ എന്ന് വിളിക്കുന്ന മറ്റൊരു ഘടകമുണ്ടെന്നും അത് ഗ്രീക്ക് അക്ഷരത്താൽ സൂചിപ്പിക്കുമെന്നും നമുക്ക് അനുമാനിക്കാം ഈ ടൈം കോൺസ്റ്റന്റ് τ RC എന്ന് നമുക്ക് പറയാം അതുകൊണ്ടു സമയവുമായി ബന്ധപ്പെട്ട് ഈ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ അത് അതിവേഗം ക്ഷയിക്കുന്നുവെന്ന് കാണാൻ കഴിയും അതിനാൽ നമ്മൾ t 0 സമയം എടുക്കുമ്പോൾ വോൾട്ടേജിന്റെ പ്രാരംഭ മൂല്യം എന്താണെന്നും അതിനുശേഷം ഈ ഘടകം കാരണം അത് ക്ഷയിക്കുകയാണെന്നും ഒടുവിൽ എല്ലാ ഊർജ്ജവും റെസിസ്റ്ററിൽ ഇല്ലാതാകുമെന്നും നമുക്കറിയാം അതിനാൽ t 0 ന് തുല്യമാണെന്ന് സജ്ജമാക്കുമ്പോൾ ഇത് ഒരു പ്രാരംഭ വ്യവസ്ഥയാണെന്ന് പറയുന്നു അതിനാൽ സ്വാഭാവിക പ്രതികരണം സർക്യൂട്ടിന്റെ സ്വഭാവത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ബാഹ്യ സ്രോതസ്സുകളൊന്നുമില്ലാതെ വാസ്തവത്തിൽ സർക്യൂട്ടിന് പ്രതികരണമില്ല കാരണം കപ്പാസിറ്ററിൽ തുടക്കത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം അതിനാൽ സ്വാഭാവിക പ്രതികരണത്തിന് സർക്യൂട്ടിൽ വ്യാപിക്കുന്നതിനുള്ള ആന്തരിക ഊർജ്ജം മാത്രമേ ഉണ്ടാകൂ ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം സമയം t τന് തുല്യമാകുമ്പോൾ അതിനർത്ഥം നിങ്ങൾ t യെ τ മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ ഇത് ലളിതമായി മാറും അതിനാൽ ആ സമയത്ത് മൂല്യം

ഇപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം അതിനാൽ സമയം t ടൈം കോൺസ്റ്റന്റ് തുല്യമാണെന്ന് പറയുമ്പോൾ പ്രതികരണം e പവർ മൈനസ് 1 ന് തുല്യമായ 1e എന്ന ഒരു ഘടകത്താൽ ക്ഷയിക്കും അതിനർത്ഥം അതിന്റെ പ്രാരംഭ മൂല്യത്തിന്റെ 36 8 ശതമാനം കുറയുന്നു RC എന്നത് τ എന്നതിന് മാറ്റി ലളിതമാക്കുമ്പോൾ ഈ മൂല്യം നമുക്ക് ലഭിക്കും അതിനാൽ നമ്മൾ സർക്യൂട്ടിൽ τ നെ പ്രതിനിധീകരിക്കുമ്പോൾ അതിനാൽ നിങ്ങൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഡിനോമിനേറ്ററിൽ എടുക്കുകയാണെങ്കിൽ ഇത് ആയി മാറും സമയം t യുമായി ബന്ധപ്പെട്ട് ഈ മൂല്യം പ്ലോട്ട് ചെയ്യും സമയം τ ന്റെ ഗുണിതമായി നമുക്ക് എടുക്കാം അതിനാൽ നിങ്ങൾ താരതമ്യം ചെയ്താൽ 5τ ന് ശേഷം അതായത് 5 മടങ്ങ് സമയ സ്ഥിരാങ്കങ്ങൾക്ക് ശേഷം നിങ്ങൾ മനസ്സിലാക്കും വോൾട്ടേജിന്റെ v ഒരു ശതമാനത്തിൽ കുറവാണ് അതിനാൽ നമുക്ക് പറയാൻ കഴിയുന്നതെന്തെന്നാൽ കപ്പാസിറ്റർ പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ 5 തവണ ടൈം കോൺസ്റ്റന്റ് ശേഷം പൂർണ്ണമായും ചാർജ്ജ് ചെയ്യപ്പെടും എന്ന് പറയാൻ കഴിയും അതിനർത്ഥം സർക്യൂട്ട് അതിന്റെ അന്തിമ അവസ്ഥയിലേക്കോ സ്ഥിരമായ അവസ്ഥയിലേക്കോ എത്താൻ 5τ സമയം എടുക്കും എന്നാണ് അതിനാൽ τ യുടെ ഓരോ ഇടവേളയും വോൾട്ടേജ് അതിന്റെ മുൻ മൂല്യത്തിന്റെ 36 8 ശതമാനം കുറയ്ക്കുന്നു അതിനാൽ ഈ പട്ടികയിൽ നിന്നും കാണാൻ കഴിയും ഓരോ സമയത്തിൻറെ τ വർദ്ധനവിന് തുല്യമായ വോൾട്ടേജ് അതിന്റെ മുൻമൂല്യത്തിന്റെ 36 8 ശതമാനം കുറയും കാരണം ഇത് Vt by e ആണ് അതിനാൽ നിങ്ങൾ മൂല്യം മാറ്റുന്നത് തുടരുകയാണെങ്കിൽ ഇത് എല്ലായ്പ്പോഴും Vt യുടെ 36 8 ശതമാനത്തിന് തുല്യമായിരിക്കും ഇത് t യുടെ ഏതെങ്കിലും മൂല്യത്തെ പരിഗണിക്കാതെ തന്നെ ആയിരിക്കും അതിനാൽ t ന്റെ മൂല്യം τ 2 τ അല്ലെങ്കിൽ 3τ ആക്കുകയാണെങ്കിൽ അതിന്റെ മുൻ മൂല്യത്തിന്റെ 36 8 ശതമാനമാണ് ടൈം കോൺസ്റ്റന്റ് ചെറുതാണെങ്കിൽ വോൾട്ടേജ് പെട്ടെന്ന് കുറയുന്നു അതിനർത്ഥം ആർസി സർക്യൂട്ടിന് വേഗത്തിലുള്ള സമയ പ്രതികരണമുണ്ടെന്നാണ് ഈ ചിത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ ടൈം കോൺസ്റ്റന്റ് ചെറുതാണെങ്കിൽ τ എന്നത് മറ്റൊന്നുമല്ല അത് RC R C എന്നിവയുടെ ഗുണിതം ആണ് ഇത് ചെറുതാണെങ്കിൽ വക്രത്തിന്റെ ചരിവ് മറ്റുള്ളവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വോൾട്ടേജ് വളരെ വേഗത്തിൽ ക്ഷയിക്കുന്നുവെന്ന് കാണിക്കുന്നു അതിനാൽ കൂടുതൽ മൂല്യം കുറയ്ക്കുന്നു τ കൂടുതൽ വേഗത്തിൽ സർക്യൂട്ടിലെ വോൾട്ടേജിന്റെ ക്ഷയം ആയിരിക്കും നിങ്ങൾക്ക് τ വലുതാണെങ്കിൽ സർക്യൂട്ടിന്റെ വേഗത കുറഞ്ഞ പ്രതികരണം കാണും ചെറിയ സമയ സ്ഥിരത എന്നത് വേഗതയേറിയ പ്രതികരണം നൽകും അത് വേഗത്തിൽ സ്ഥിരമായ അവസ്ഥയിലെത്തും അതേസമയം വലിയ സമയ സ്ഥിരത ഉള്ളപ്പോൾ അത് മന്ദഗതിയിലുള്ള പ്രതികരണം നൽകും കാരണം അതിന്റെ സ്ഥിരമായ മൂല്യത്തിലേക്ക് എത്താൻ കൂടുതൽ സമയമെടുക്കും ഇപ്പോൾ ഏത് നിരക്കിലും ടൈം കോൺസ്റ്റന്റ് ചെറുതായാലും വലുതായാലും സർക്യൂട്ട് 5 ടൈം കോൺസ്റ്റന്റ് സമയത്തിൽ അതിന്റെ സ്ഥിരമായ അവസ്ഥയിലെത്തും 5 ടൈം കോൺസ്റ്റന്റ് സമയത്തിൽ സർക്യൂട്ട് വോൾട്ടേജ് ഉള്ളതിനാൽ വോൾട്ടേജ് മൂല്യം സമയ സ്ഥിരാങ്കത്തിന്റെ മൂല്യം ചെറുതോ വലുതോ ആണ് സ്ഥിരമായ അവസ്ഥയിലെ സമയത്തെ ബാധിക്കുകയില്ല ഇത് എല്ലായ്പ്പോഴും സമയ സ്ഥിരതയുടെ 5 മടങ്ങ് ആയിരിക്കും ടൈം കോൺസ്റ്റന്റ് ചെറുതാണെങ്കിൽ ആ സന്ദർഭത്തിൽ 5 മടങ്ങ് τ ചെറുതായിരിക്കും സർക്യൂട്ട് വേഗത്തിൽ സ്ഥിരമായ അവസ്ഥയിലെ മൂല്യത്തിലേക്ക് എത്തും ഇപ്പോൾ വോൾട്ടേജ് v ഉപയോഗിച്ച് നമുക്ക് കറണ്ട് കണ്ടെത്താനാകും സമയം t ൽ റെസിസ്റ്ററിലെ വൈദ്യുതി നഷ്ടം P ആണെങ്കിൽ തൽക്ഷണമായ പവർ സമയം t വരെ റെസിസ്റ്റർ ആഗിരണം ചെയ്യുന്ന ഊർജ്ജം ഇപ്പോൾ t സമയത്തെ ഈ സമവാക്യം പൂജ്യത്തിന് തുല്യമാണെങ്കിൽ ഊർജ്ജം 0 ആയിരിക്കും ആ സമയത്ത് t ഇൻഫിനിറ്റിക്ക് തുല്യമാണെന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിലെ പദം 0 ആകും അതിനാൽ

ഈ ഊർജ്ജം കപ്പാസിറ്ററിൽ സംഭരിച്ചിരുന്ന പ്രാരംഭ ഊർജ്ജം മാത്രമാണ് അതിനാൽ കപ്പാസിറ്ററിൽ ഉണ്ടായിരുന്ന മൊത്തം ഊർജ്ജം ഇൻഫിനിറ്റി സമയത്ത് റെസിസ്റ്ററിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു അതിനാൽ കപ്പാസിറ്ററിൽ ലഭ്യമായ ഊർജ്ജം പൂർണ്ണമായും ഇല്ലാതാകാൻ ഇൻഫിനിറ്റി സമയമെടുക്കും സോഴ്സ് ഫ്രീ ആർസി സർക്യൂട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഓർമിക്കേണ്ട രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്ന് പ്രാരംഭ വോൾട്ടേജും മറ്റൊന്ന് സമയ സ്ഥിരാങ്കത്തിന്റെ മൂല്യവുമാണ് ഈ രണ്ട് മൂല്യങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തിയ സമവാക്യം ഉപയോഗിച്ച് സർക്യൂട്ടിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് പോലുള്ള പാരാമീറ്ററുകൾ കണ്ടെത്തുക ഔട്ട്പുട്ട് എന്തായിരിക്കണമെന്നത് പരിഗണിക്കാതെ ടൈം കോൺസ്റ്റന്റ് തുല്യമാണ് അതിനാൽ ടൈം കോൺസ്റ്റന്റ് τ കണ്ടെത്തുന്നതിൽ അത് ആർസിക്ക് തുല്യമാണ് R പലപ്പോഴും തെവെനിൻ തുല്യമായ റെസിസ്റ്റൻസ് ആണ് അതിനാൽ നിങ്ങൾ വലിയ സർക്യൂട്ട് നൽകുകയും സർക്യൂട്ട് റെസിസ്റ്റൻസ് കണ്ടെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെവെനിൻ സിദ്ധാന്തം ഉപയോഗിക്കാം കൂടാതെ കപ്പാസിറ്ററിന്റെ ടെർമിനലിൽ R കേവലം ഒരു തെവെനിൻ തുല്യമായ റെസിസ്റ്റൻസ് ആയിരിക്കും അതിനാൽ നിങ്ങൾ കപ്പാസിറ്റർ പുറത്തെടുത്ത് തെവെനിൻ റെസിസ്റ്റൻസ് മൂല്യം കണ്ടെത്തുകയാണെങ്കിൽ അത് സർക്യൂട്ടിന്റെ സമയ പ്രതികരണം കണ്ടെത്താൻ പര്യാപ്തമാണ് അതിനാൽ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ആശയം മനസിലാക്കാം ഈ പ്രത്യേക ചിത്രം കണ്ടാൽ കപ്പാസിറ്ററിന് കുറുകെയുള്ള പ്രാരംഭ വോൾട്ടേജ് 15 വോൾട്ട് ആണ് അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് മൂല്യം കണ്ടെത്തണം അതിനാൽ ആദ്യം കപ്പാസിറ്റർ ടെർമിനലിൽ തുല്യമായ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തെവെനിൻ റെസിസ്റ്റൻസ് കണ്ടെത്തുക തുടർന്ന് നമുക്ക് കപ്പാസിറ്റർ വോൾട്ടേജ് ലഭിക്കും തുടർന്ന് ൽ നിന്ന് എന്നിവയുടെ മൂല്യം നിർണ്ണയിക്കും ഇപ്പോൾ 8 ഓം 12 ഓം റെസിസ്റ്ററുകൾ ശ്രേണിയിലാണ് ഈ കോമ്പിനേഷൻ 5 ഓം റെസിസ്റ്റൻസിന് സമാന്തരമാണ് മുകളിലുള്ള സ്ലൈഡിൽ നിന്ന് എക്വിവാലെന്റ് R 4 ഓംസ് ആണെന്ന് കാണാം ഇപ്പോൾ ഒടുവിൽ 4 ഓംസ് ആയ എക്വിവാലെന്റ് R സമാന്തരമായി 0 1 ഫാറഡ് കപ്പാസിറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിന് 15 വോൾട്ട് പ്രാരംഭ വോൾട്ടേജ് ഉണ്ട് മുകളിലുള്ള സ്ലൈഡിൽ നിന്ന് അജ്ഞാത പാരാമീറ്ററുകൾ കണ്ടെത്താൻ കഴിയും അതിനാൽ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു ഈ സെഷനിൽ ആർസി സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണത്തെക്കുറിച്ച് ചർച്ചചെയ്തു അടുത്ത സെഷനിൽ ആർഎൽ സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും